FDTD യിലേക്ക് PML നടപ്പിലാക്കുന്നു ഭാഗം 1 ശരിയാണ് PML സിദ്ധാന്തത്തിന്റെ ഒരു തരം സംഗ്രഹമാണ് നമ്മൾ ഇതുവരെ കണ്ടത് നിഗമനം കോർഡിനേറ്റ് സ്ട്രെച്ച് ഘടകങ്ങൾ മാറ്റുന്നതിലൂടെ നമുക്ക് 0 പ്രതിഫലനങ്ങളുള്ള ഒരു നഷ്ടം സംഭവിക്കുന്ന മാധ്യമത്തെ അനുകരിക്കാനാകും ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ യുടെ ഡെറിവേഷനിൽ ഒരു സമയ കൺവെൻഷൻ ഏറ്റെടുത്തു അതിനാൽ നമ്മുടെ സമയ കൺവെൻഷൻ ആയിരുന്നു ഇത് ൻറെ രൂപത്തെ ആയി തിരഞ്ഞെടുക്കുന്നതിലേക്ക് നമ്മെ നയിച്ചു അതിനാൽ അതിന് ഒരു പദം ഉണ്ട് ഇപ്പോൾ എനിക്ക് എന്നതിന് വിപരീത സമയ കൺവെൻഷൻ ഉണ്ടെങ്കിൽ എന്റെ എന്നത് ആയിരിക്കും അതിനാൽ ഇവ നിങ്ങൾ ലളിതമായി തീർച്ചപ്പെടുത്തേണ്ട പ്രശ്നങ്ങളിൽ ചിലതാണ് എന്നോർക്കുക അല്ലാത്തപക്ഷം നിങ്ങളുടെ കോഡിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ PML നെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ചചെയ്തത് ഞാൻ അതെങ്ങിനെ നടപ്പാക്കും എന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അതിനാൽ ഒടുവിൽ ഈ സിദ്ധാന്തം എല്ലാം ചെയ്തുകഴിഞ്ഞാൽ എന്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നത് എന്നതാണ് അറിയേണ്ടത് അതിനാൽ അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതാണ് അതിനാൽ ഇത് FDTD ലേക്ക് നടപ്പിലാക്കുകയും അത് വളരെ ലളിതമായി മാറുകയും ചെയ്യുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യം അല്പം വ്യത്യസ്തമായി നോക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് എന്നാൽ ആ കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഘടകം വീണ്ടും നോക്കിക്കൊണ്ട് മാക്സ്വെല്ലിന്റെ സമവാക്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതിനാൽ വീണ്ടും ഒരു ലളിതമായ തിരിഞ്ഞുനോട്ടം ആണ് നമ്മെ വീണ്ടും സഹായിക്കുന്നത് അതിനാൽ നമുക്ക് ഒരു ചെറിയ സൂത്രം ചെയ്യാം അതിനാൽ നമ്മുടെ സാധാരണ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വീണ്ടും എഴുതാം ഉദാഹരണത്തിന് H ൻറെ കേൾ നമുക്ക് അതിനെ വിപുലീകരിക്കാം അതിനാൽ ഘടകവും പിന്നെ ഏതെല്ലാം ഘടകങ്ങളാണ് അവിടെ ഉണ്ടാകുക അത് ആദ്യ പദമാണ് അതിനുശേഷം എനിക്ക് ഒരു പദമുണ്ട് അത് ആകുന്നു അതിനുശേഷം ഒരു ഘടകം ഉണ്ടായിരിക്കണം അത് ആകും നമ്മൾ കേൾ എഴുതുന്ന ഒരു സാധാരണ രീതിയാണിത് ഇപ്പോൾ നമ്മുടെ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ നമ്മൾ പുനർനിർവചിച്ചത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അപ്പോഴാണ് നമുക്ക് കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഘടകങ്ങൾ ലഭിച്ചിരുന്നത് ഞാൻ പുനർനിർവചിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന അതോ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ ആയിരുന്നോ ഞാൻ അവയെ എങ്ങനെ പുനർനിർവചിച്ചു അതെ പക്ഷേ അത് ഏത് പദത്തിനൊപ്പമാണ് വന്നത് യൂണിറ്റ് വെക്റ്റർ പദങ്ങളോടൊപ്പമല്ല ഭാഗിക ഡെറിവേറ്റീവുകളുടെ പദങ്ങളോടൊപ്പം ശരിയല്ലേ ഉദാഹരണത്തിന് അതിനാൽ ഇവിടെ നിന്ന് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് പൊതുവായ ഭാഗിക ഡെറിവേറ്റീവ് പദങ്ങൾ പുറത്തേക്കെടുക്കുക എന്നതാണ് അതിനാൽ അത് കാണാനായി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം അതിനാൽ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുവെന്ന് കരുതുക അങ്ങനെ ആയിരിക്കും എനിക്ക് ഇവിടെ നിന്ന് എന്ത് ലഭിക്കും ഇവിടെ ഇപ്പോൾ ഒരു ഉം ഒരു ഉം മാത്രമേയുള്ളൂ അതിനാൽ എന്നത് ആകാൻ പോകുന്നു അങ്ങനെ എനിക്ക് ഒരു ലഭിക്കാൻ പോകുന്നു മുകളിലുള്ള പദപ്രയോഗത്തിൽ എവിടെയെങ്കിലും ഇതുപോലുള്ള ഒരു പദം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഇത്തരത്തിലുള്ളത് എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുന്നുണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ അതിനാൽ ഇവയിൽ പൊതുവായുള്ളത് എന്താണ് അതിനാൽ അവിടെയുള്ള ഭാഗിക ഡെറിവേറ്റീവ് നെ സംബന്ധിച്ച് പൊതുവായുള്ളത് എന്താണ് ഇവിടെ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ എനിക്കതിനെ വീണ്ടും ഇങ്ങനെ എഴുതാവുന്നതാണ് അപ്പോൾ എന്നതിനെ എനിക്ക് വീണ്ടും ഇങ്ങനെ എഴുതാം ഏകദേശങ്ങളില്ല ഇത് വീണ്ടും എഴുതുന്നു അതിനാൽ ഇവിടെ ഇത് എന്നീ യൂണിറ്റ് വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയത് ഇപ്പോൾ ഞാൻ വീണ്ടും എഴുതുന്നു അതിനാൽ ഞാൻ ഭാഗിക ഡെറിവേറ്റീവുകളെ വിഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കാരണം ഇത് ഇപ്പോൾ കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഉപയോഗിച്ച് എളുപ്പത്തിൽ വ്യാഖ്യാനം നൽകുന്ന ഒരു രൂപത്തിലാണ് കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഒരു നെ അല്ലെങ്കിൽ കൊണ്ട് ഗുണിക്കും അതിനാൽ ഇത് ഇപ്പോൾ അത് നമ്മളെ കാണിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് FDTD ആയി നടപ്പിലാക്കുന്നതിനുള്ള താരതമ്യം നടത്താൻ നഷ്ടം സംഭവിക്കുന്ന മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്ന ഏതെങ്കിലും ഒരു രീതി നമ്മൾ ഉപയോഗിക്കും അതിനാൽ നമുക്ക് ഈ സമവാക്യം 1 ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അത് നിർത്തിവയ്ക്കുകയും ശേഷം താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് നഷ്ടം സംഭവിക്കുന്ന മാധ്യമങ്ങൾ നോക്കി വളരെ ലളിതമായ ചിലത് നമ്മൾ ഉപയോഗിക്കും അതായത് നമ്മൾ മുൻപ് ചെയ്ത ഓംസ് നിയമം ഉപയോഗിക്കുന്നു ഓംസ് നിയമം എന്നാൽ ആണല്ലേ അതിനാൽ അവിടെ എനിക്ക് എന്താണുള്ളത് അപ്പോൾ ആകുന്നു ഇതു നമുക്കറിയാം അങ്ങനെ ഇത് ഇതിനെ എനിക്ക് വീണ്ടും മാറ്റിയെഴുതാം എനിക്കിതിനെ സങ്കീർണമായ പെർമിറ്റിവിറ്റിയുടെ പദങ്ങളിൽ എഴുതാം അതിനാൽ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാവുന്നതാണ് അതിനാൽ ഇത് നമ്മൾ ഇതിനകം കണ്ടതാണ് ഇതിനെ നമുക്ക് എന്ന് വിളിക്കാം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരു നഷ്ടം സംഭവിക്കുന്ന മാധ്യമത്തിലേക്ക് വിവരങ്ങൾ എടുക്കുന്നതെന്ന് നിങ്ങൾ ഊഹിവച്ചേക്കാം കാരണം കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഉള്ള PML ഒരു നഷ്ടം സംഭവിക്കുന്ന ഐസോട്രോപിക് മാധ്യമം പോലെയാണെന്ന് ഞങ്ങൾ ഇതിനകം വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അതിനാൽ നമുക്ക് ഇതിനകം അറിയാവുന്ന ചിലതെല്ലാം ഇവിടെ ഉപയോഗിക്കാം അതിനാൽ ഇപ്പോൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ പ്രകാരം എന്നത് തുല്യമാകാൻ പോകുന്നു അതിനാൽ എനിക്ക് ഈ ബന്ധം ഇവിടെയുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതിയ ഈ സമവാക്യം 1 ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയും അതിനാൽ വൈദ്യുത മണ്ഡലത്തോടൊപ്പമുള്ള ഈ പദങ്ങളെല്ലാം സ്കെയിലറുകളാണ് അതിനാൽ ഇവിടെയുള്ള ഈ വെക്റ്റർ ഈ 3 പദങ്ങളിൽ ഓരോന്നും ഒരു വെക്റ്റർ ആണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ അവയുടെ ദിശ വ്യക്തമല്ല അത് H എവിടെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇതുപോലുള്ള 3 വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇത് മുഴുവൻ മാറ്റിയെഴുതാം എനിക്ക് ഇത് എന്ന് എഴുതാം അതിനാൽ ഞാൻ എന്താണ് പറയുന്നത് സമവാക്യം 1 ന് 3 വെക്റ്ററുകൾ ഉണ്ട് ഈ പദങ്ങളിൽ ഓരോന്നും 1 2 3 ഈ 3 ൽ ഓരോന്നും 1 വെക്റ്റർ ആണ് ഒടുവിൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ പ്രകാരം ഈ പദത്തിനു തുല്യമാകുന്നു വൈദ്യുത മണ്ഡലത്തിനും 3 വെക്റ്ററുകൾ ഉണ്ട് അതിനാൽ ഞാൻ ഈ 3 വെക്റ്ററുകൾ നിർവ്വചിക്കുന്നു ഉദാഹരണത്തിന് ൻറെ നിർവചനം എന്താണ് ഇതാണ് ഞാൻ അവതരിപ്പിച്ച പുതിയ നിർവചനം ഇത് എന്നതിന് തുല്യമായിരിക്കും ഇതാണ് എന്റെ നിർവചനം എനിക്ക് അത് ചെയ്യാൻ കഴിയുമോ അതിനാൽ ഞാൻ വൈദ്യുത മണ്ഡലത്തെ 3 വെക്റ്ററുകൾ ആയി വിഘടിപ്പിച്ചിട്ടുണ്ട് അതിനാൽ നല്ല പോയിന്റ് ആണ് അതിനാൽ ഈ വെക്റ്ററുകൾ എന്നിവ എന്നിവയ്ക്കൊപ്പമല്ല അവ 3 ഏകപക്ഷീയ ദിശകളിൽ ആണ് ആ 3 ഏകപക്ഷീയ ദിശകൾ എന്തൊക്കെയാണ് യൂണിറ്റ് വെക്റ്ററുകളാണ് അവ നൽകുന്നത് എനിക്ക് ആവശ്യമുള്ള ഏതെങ്കിലും 3 ഓർത്തോഗണൽ ദിശകളിലേക്ക് എനിക്ക് ഒരു വെക്റ്റർ വിഘടിപ്പിക്കാൻ കഴിയും അതിനാൽ ഇവ എന്നീ ദിശകളിലൂടെ അല്ല അവ 3 ഏകപക്ഷീയ ദിശകൾ ആയി നിർവചിച്ച എന്നീ ദിശകളിലൂടെ ആണ് നീങ്ങുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളും നഷ്ടം സംഭവിക്കുന്ന മാധ്യമങ്ങളും പുനർവ്യാഖ്യാനം ചെയ്തതല്ലാതെ ഇതുവരെ ഞാൻ പുതിയതായൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ PML എങ്ങനെ നടപ്പാക്കാം എന്ന് അടുത്തതായി നമുക്ക് നോക്കാം അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാനാകുമോ